നമുക്ക് മറ്റൊരു രീതി ഉണ്ട് അത് സോഴ്സിൽ സെൻസ് ചെയ്യുകയും ഗേറ്റിൽ ഫീഡ്ബാക്ക് കൊടുക്കുകയുമാണ് കാരണം ഈ ചിത്രത്തിൽ ഡ്രെയിൻ ഇല്ല നമ്മൾ സോഴ്സിൽ സെൻസ് ചെയ്യുകയും ഗേറ്റിൽ ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നു ഞാൻ ഡ്രെയിൻ സപ്ലൈ വോൾട്ടേജുമായി ബന്ധിപ്പിക്കും ഇത് ചില വോൾട്ടേജുകളാണ് അത് എവിടെയെങ്കിലും ബന്ധിപ്പിച്ചിരിക്കുന്നു ബയാസിംഗ് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഡ്രെയിൻ എവിടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രസക്തമല്ല തീർച്ചയായും ഒരു ആംപ്ലിഫയറിൽ ഇത് സാച്ചുറേഷൻ മേഖലയിൽ നിലനിൽക്കുന്ന രീതിയിൽ ബന്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സോഴ്സ് മനസിലാക്കാൻ ഞാൻ കറന്റ് സോഴ്സ് I0 നെ സോഴ്സ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു നമുക്ക് MOS ട്രാൻസിസ്റ്ററിൽ യഥാർത്ഥ ഡ്രെയിൻ കറന്റ് ID ഉണ്ട് ഇപ്പോൾ നമ്മൾ ഗേറ്റിൽ ഫീഡ്ബാക്ക് നൽകുന്നു നേരത്തെ നമ്മുടെ ആദ്യത്തെ കേസിൽ നമ്മൾ ഗേറ്റിലേക്ക് തിരികെ ഫീഡ്ബാക്ക് കൊടുക്കുകയായിരുന്നു നാം സോഴ്സ് ടെർമിനലിനെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചു എന്നാൽ തീർച്ചയായും ഇപ്പോൾ നമ്മൾ സോഴ്സ് ടെർമിനലിലെ കറന്റ് വ്യത്യാസം സെൻസ് ചെയ്യുന്നു അതിനാൽ നമുക്ക് സോഴ്സ് ടെർമിനലിനെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ സോഴ്സ് ടെർമിനൽ കറന്റ് സോഴ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ നമുക്ക് ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യണം ഇപ്പോൾ സോഴ്സ് ടെർമിനൽ കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ യുക്തിസഹമായ ശൃംഖലയിലൂടെ പോകാം ID വളരെ വലുതാണെങ്കിൽ അതായത് I0 നേക്കാൾ വലുതാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് VGS കുറയ്ക്കണം അതിനാൽ VGS കുറയ്ക്കണം സോഴ്സ് വോൾട്ടേജ് എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ VGS VG Vsക്ക് തുല്യമാണ് VG ക്കൊപ്പം നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് VG യും കുറയ്ക്കേണ്ടതാണെന്ന് പറയുന്നു ഇതാണ് നമുക്ക് വേണ്ട ഫീഡ്ബാക്ക് നടപടി അതായത് ID I0 നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ VG കുറയ്ക്കണം അതിനാൽ ID കുറയ്ക്കും ഇപ്പോൾ സോഴ്സ് ടെർമിനലിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ID I0 കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്നു ID I0 നേക്കാൾ ഉയർന്നതാണെങ്കിൽ സംഭവിക്കുന്നത് സോഴ്സ് വോൾട്ടേജ് Vs യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നു എന്നതാണ് അതിനാൽ സോഴ്സ് വോൾട്ടേജിന് സംഭവിക്കുന്നത് ID I0 നേക്കാൾ വലുതാണോ അതോ I0 നേക്കാൾ കുറവാണോ എന്നതിന്റെ അളവാണ് ID I0 നേക്കാൾ വലുതാണെങ്കിൽ Vs വർദ്ധിക്കുന്നു നമ്മൾ VG യെ കുറയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നു അതിനർത്ഥം മുമ്പത്തെ കാര്യത്തിലെന്നപോലെ Vs ഉം VG ഉം തമ്മിൽ നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗൈൻ ഉണ്ടായിരിക്കണം അതായത് Vs വർദ്ധിക്കുകയാണെങ്കിൽ VG കുറയ്ക്കുകയും തിരിച്ചും അതിനാൽ Vs ഇൻപുട്ടായി എടുക്കുന്ന ചില ബ്ലോക്കുകളെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും മാത്രമല്ല VG പുറത്തെടുക്കുകയും ചെയ്യുന്നു ഇതിന് നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗൈൻ ഉണ്ടായിരിക്കണം അതായത് ഇൻപുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് കുറയുന്നു അതിനാൽ അതാണ് നെഗറ്റീവ് ഇൻക്രിമെന്റൽ നേട്ടത്തിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിരീക്ഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പത്തെ ചർച്ചയിൽ നിന്ന് ഇത് VG ആണെന്നും ഞാൻ സോഴ്സ് ടെർമിനലിലേക്ക് I0 കണക്റ്റുചെയ്യുന്നുവെന്നും നിങ്ങൾക്കറിയാം കൂടാതെ യഥാർത്ഥ ഡ്രെയിൻ കറന്റ് ID യുമുണ്ട് ID I0 നേക്കാൾ വലുതാണെങ്കിൽ ID I0 ഈ ദിശയിൽ കപ്പാസിറ്ററിലേക്ക് പ്രവഹിക്കുകയും സോഴ്സ് വോൾട്ടേജ് ഉയർത്തുകയും ചെയ്യുന്നു ഇപ്പോൾ നിലവിലുള്ള ID യും സോഴ്സ് വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ സോഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ID കുറയുന്നു അതിനാൽ ഈ കണക്ഷൻ വഴി ഇതിനകം തന്നെ ഫീഡ്ബാക്ക് ഉണ്ട് വാസ്തവത്തിൽ ഈ വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജ് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ പഴയ സർക്യൂട്ട് ആണ് ഇത് ഉറവിടത്തിൽ സംവേദിക്കുകയും ഉറവിടത്തിലേക്ക് ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒരു സോഴ്സ് ടെർമിനലുമായി ബന്ധിപ്പിക്കുമ്പോൾ സോഴ്സിലേക്ക് ഇതിനകം തന്നെ ഫീഡ്ബാക്ക് ഉണ്ട് ഇത് നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല കാരണം സോഴ്സ് MOSFET ന്റെ നിയന്ത്രണ ഭാഗത്തിനും MOSFET ന്റെ നിയന്ത്രിത ഭാഗത്തിനും അവകാശപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾ ഈ അധിക സർക്യൂട്ടിനെ ഇവിടെ ബന്ധിപ്പിക്കുമ്പോൾ ഗേറ്റിലേക്ക് ഫീഡ്ബാക്കും ഉണ്ട് അതിനാൽ ശരിക്കും ഈ സർക്യൂട്ട് ഞാൻ അതിനെ സോഴ്സിൽ സെൻസ് ചെയ്യുകയും ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് നൽകുകയും ചെയ്തു സോഴ്സ് നമ്മൾ സെൻസ് ചെയ്തുവെങ്കിലും പക്ഷേ ഫീഡ്ബാക്ക് സോഴ്സിലും ഗേറ്റിലും ഉള്ളതാണ് രണ്ടും ഉചിതമായ ദിശയിലാണ് കാരണം ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ Vs വർദ്ധിക്കുകയും ഈ നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗൈനിലൂടെ VG കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ VGS തീർച്ചയായും കുറയ്ക്കുന്നു ഗേറ്റ് വോൾട്ടേജ് എവിടെയാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതിൽ നിന്ന് ഇത് ഇപ്പോഴും വ്യത്യസ്തമായ ഒരു കേസാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ഗേറ്റിലേക്കും സോഴ്സിലേക്കും തിരികെ പോവുകയാണ് സാധാരണ ഗേറ്റിലേക്കുള്ള ഫീഡ്ബാക്ക് കൂടുതൽ ശക്തമാണ് അതിനാൽ ഇത് ഉപയോഗപ്രദമാണ് ഇത് ഒരു പ്രത്യേക കേസായി പരിഗണിക്കുക അതിനാൽ നമ്മൾ ഇപ്പോൾ നാല് കേസുകളും ചർച്ചചെയ്തു ഡ്രെയിനേജ് അല്ലെങ്കിൽ സോഴ്സ് എന്നിവ സെൻസ് ചെയ്യുകയും ഗേറ്റിലേക്കോ സോഴ്സിലേക്കോ ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നു ഈ സർക്യൂട്ട് നമ്മൾ ആദ്യo ചർച്ച ചെയ്ത രണ്ട് തരം ഫീഡ്ബാക്ക് ബയസ് സർക്യൂട്ടിനെക്കാൾ അല്പം സങ്കീർണ്ണമാണ് അതിനാൽ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിനായി നിങ്ങൾ ഇത് മിക്കവാറും ഉപയോഗിക്കില്ല എന്നാൽ അത്തരമൊരു ക്രമീകരണം ദൃശ്യമാകുന്ന മറ്റ് നിരവധി സർക്യൂട്ടുകൾ ഉണ്ട് അനുയോജ്യമായ ഒരു ഓപ് ആമ്പ് ഉപയോഗിച്ച് ഞാൻ വീണ്ടും ഒരു സാധ്യത കാണിക്കും എനിക്ക് Vs മനസിലാക്കി അത് ഗേറ്റിലേക്ക് തിരികെ നൽകണം കൂടാതെ ഒരു ഓപ് ആമ്പ് വഴി ID0 ചെയ്യുക ഓപ് ആമ്പ് ന്റെ മറ്റൊരു ടെർമിനലിനെ ഞാൻ Vs0 എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ Vs ഉം VG ഉം തമ്മിൽ നെഗറ്റീവ് വർദ്ധനവ് വേണമെന്ന് നമുക്കറിയാം അതിനാൽ ഇത് ഇത്തരത്തിലുള്ളതായിരിക്കണം ഓപ് ആമ്പിന്റെ അടയാളങ്ങൾ ഇതുപോലെയായിരിക്കണം ഓപ് ആമ്പ് ഉള്ള ഡിഫറൻഷ്യൽ വോൾട്ടേജാണിത് ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നിങ്ങൾ VG മുതൽ Vs വരെ നോക്കുകയാണെങ്കിൽ ഒപ് ആമ്പിന് ചുറ്റും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉറപ്പാക്കുന്നതിന് ഒപ് ആമ്പിനുള്ള ശരിയായ അടയാളങ്ങളാണിവയെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം ഒപ് ആമ്പ് നിങ്ങൾക്ക് ഈ വെർച്വൽ ഷോർട് നൽകുമ്പോൾ മാത്രം ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിലായിരിക്കണം എന്ന് പറയാൻ കഴിയും ഒപ് ആമ്പ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഉപയോഗപ്രദമാകുന്ന ചില സർക്യൂട്ടുകൾ ഉണ്ട് പക്ഷേ നമ്മുടെ എല്ലാ ഒപ് ആമ്പ് സർക്യൂട്ടുകളിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിലായിരിക്കും അതിനാൽ ഇത് നാല് തരം ബയസ് സർക്യൂട്ടുകൾ അവസാനിപ്പിക്കുന്നു അതായത് ഡ്രെയിനിൽ സെൻസ് ചെയ്യുന്നു ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്നു സോഴ്സിൽ സെൻസ് നടത്തുന്നു സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്നു ഡ്രെയിനിൽ സെൻസ് നടത്തുന്നു സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്നു സോഴ്സിൽ സെൻസ് നടത്തുന്നു ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നു അതിനാൽ അടിസ്ഥാന തത്ത്വം നിങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഇത് കൃത്യമായ രീതിയിൽ സംഭവിക്കുന്നത് പ്രശ്നമല്ല അതിനർത്ഥം നമ്മൾ ഡ്രെയിൻ ഗേറ്റിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചേക്കാം അല്ലെങ്കിൽ അതിനിടയിലും മറ്റും നമുക്ക് മറ്റ് ചില സർക്യൂട്ടുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അവയെല്ലാം വിശകലനം ചെയ്യാൻ കഴിയണം കാരണം ഈ സർക്യൂട്ടുകൾ ട്രാൻസിസ്റ്ററിൽ ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം